നമസ്കാരം അതിനാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൽ നമ്മൾ മേസൺ റൂൾനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു അതിനാൽ ചർച്ച അവിടുന്ന് നമുക്ക് തുടങ്ങാം ഇന്നത്തെ സെക്ഷനിൽ സ്റ്റേറ്റ് സമവാക്യവും കാണും അതിനാൽ കഴിഞ്ഞ സെക്ഷനിൽ ചർച്ച ചെയ്ത മേസൺ റൂൾ ആദ്യം ചർച്ച ചെയ്യാം സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ സമവാക്യങ്ങളുമായി ചേർക്കുമ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന സൂത്രവാക്യം ആണ് മേസൻറെ നിയമം സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ സ്പർശിക്കാത്ത ലൂപ്പുകളുടെ നിലനിൽപ്പ് എസ് ജെ മേസൺ നൽകിയ ഈ ഫോർമുലയുടെ സങ്കീർണ്ണത വർദ്ധിപ്പിക്കുന്നു പക്ഷേ സാധാരണയായി നമ്മൾ തത്സമയം കാണുന്ന മിക്ക സിസ്റ്റത്തിലും സ്പർശിക്കാത്ത ലൂപ്പുകൾ ഇല്ലാത്തതിനാൽ എന്ത് സംഭവിക്കും അതിനാൽ ഈ രീതിയിൽ മേസൺ റൂളിൻറെ പ്രയോഗം അത്തരം സിസ്റ്റങ്ങൾക്ക് എളുപ്പമാണ് ബ്ലോക്ക് ഡയഗ്രം ഉപയോഗിക്കുന്നതിനേക്കാൾ മേസൺ റൂൾ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ആ സിസ്റ്റങ്ങൾക്ക് എന്ന് നമ്മൾ കണ്ടെത്തി മേസൺ റൂൾ എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം ഔട്ട്പുട്ട് ഉം ഇൻപുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോർമും ആണെങ്കിൽ സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ആയി പ്രതിനിധീകരിക്കാൻ കഴിയും ഇത് മേസൺ റൂളിൻറെ സഹായത്തോടെ വിലയിരുത്താൻ കഴിയും സംഗ്രഹത്തെ സൂചിപ്പിക്കുന്നു k ഫോർവേഡ് പാതകളുടെ എണ്ണം kth ഫോർവേഡ് പാത്ത് ഗേയിൻ 1 ലൂപ്പ് ഗേയിൻ നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ ഒരു സമയം രണ്ടെണ്ണം എടുത്തത് ഒരു സമയം മൂന്ന് നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ ഒരു സമയം നാല് നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ kth ഫോർവേഡ് പാതയുമായി സ്പർശിക്കാത്ത സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻറെ ഭാഗത്തിനായുള്ള ഫോർവേഡ് പാതയെ സ്പർശിക്കാത്ത ലെ ലൂപ്പ് ഗേയിൻ അതിനാൽ ഈ നിയമമാണ് മേസൺ നൽകിയ നിയമം ഒരു ഉദാഹരണത്തിൻറെ സഹായത്തോടെ ഈ പ്രത്യേക നിയമം എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസിലാക്കാൻ ശ്രമിക്കാം ഒരു ഉദാഹരണം നോക്കാം സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഇതുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഇൻപുട്ട് ആണ് Rs എന്നിട്ട് Cs ഔട്ട്പുട്ട് ആണ് ഈ സെറ്റിന് ട്രാൻസ്ഫർ ഫംഗ്ഷനുകൾ Y1 പോലെയാണ് തുടർന്ന് Z2 നിങ്ങൾക്ക് ഒരു ലൂപ്പ് ഉണ്ട് അത് മൈനസ് Y1 എന്നും Y3 നിങ്ങൾക്ക് മറ്റൊരു ലൂപ്പ് ഉണ്ട് അത് Z2 ൻറെ മൈനസ് ആണ് തുടർന്ന് ഇത് Y3 ൻറെ മൈനസ് ആണ് Z4 ഉം ഇത് ഒരു യൂണിറ്റി സിറ്റി ഗേയിൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് അതിനാൽ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ആദ്യം കണ്ടെത്തേണ്ടത് ഫോർവേഡ് പാത്ത് ഗേയിൻ ആണ് അതിനാൽ ഈ പ്രത്യേക സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർവേഡ് പാത്ത് മാത്രമേയുള്ളൂ മറ്റൊരു ഫോർവേഡ് പാതയും ലഭ്യമല്ല അതിനാൽ നിങ്ങളുടെ ഫോർവേഡ് പാത്ത് നേട്ടം Y1 ഉം Z2 Y3 Z4 ഉം എടുക്കുന്നതിന് തുല്യമാണ് അതിനാൽ ഇത് സിഗ്നൽ ഫ്ലോ ഗ്രാഫിനുള്ള ഫോർവേഡ് പാത്ത് നേട്ടമായിരിക്കും ഇപ്പോൾ നമുക്ക് എത്ര ഇൻഡിവിജ്വൽ ലൂപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇവിടെ നമുക്ക് മൂന്ന് ഇൻഡിവിജ്വൽ ലൂപ്പുകൾ ഉണ്ടാകും ആ ഇൻഡിവിജ്വൽ ലൂപ്പുകൾ എന്തൊക്കെയാണ് ഒന്ന് ഇതാണ് അതിനാൽ ആദ്യത്തേത് Y1 Z2 ൻറെ മൈനസും രണ്ടാമത്തേത് Z2 Y3 ൻറെ മൈനസും മൂന്നാമത്തേത് Y3 Z4 ൻറെ മൈനസും ആയിരിക്കും അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്ന മൂന്ന് ഇൻഡിവിജ്വൽ ലൂപ്പുകളായിരിക്കും ഇവ നോൺ ടച്ചിംഗ് ലൂപ്പിൻറെ ജോഡികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഈ പ്രത്യേക സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നോക്കി ലൂപ്പുകൾ മാത്രം വരയ്ക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മൂന്ന് ലൂപ്പുകൾ ഉണ്ടാകും അതിനാൽ ഇത് Z2 മൈനസ് Y1 Y3 മൈനസ് Z2 Z4 മൈനസ് Y3 എന്നിവയാണ് അതിനാൽ അതിൽ നിന്ന് നിങ്ങൾ മധ്യഭാഗം നീക്കംചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്പർശിക്കാത്ത രണ്ട് സെറ്റ് ലൂപ്പുകൾ ലഭിക്കും അതിനാൽ സ്പർശിക്കാത്ത ലൂപ്പുകളുടെ മൂല്യം ട്രാൻസ്ഫർ ഫംഗ്ഷനുകളുടെ മൂല്യത്തിന് തുല്യമായിരിക്കും അത് അടുത്ത സ്ലൈഡിൽ എഴുതാം അതിനാൽ നോൺ ടച്ചിംഗ് ലൂപ്പിൻറെ മൊത്തം നേട്ടം മൈനസ് Z2 Y1 ഗുണനം മൈനസ് Y3 Z4 ആയിരിക്കും അതിനാൽ മൈനസ് മൈനസ് പ്ലസ് ആവുകയും നിങ്ങൾക്ക് Z2 Y1 ഗുണനം Y3 Z4 കിട്ടുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് രണ്ട് നോൺ ടച്ചിംഗ് ലൂപ്പുകൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിക്കും ഇപ്പോൾ അടുത്തതായി മറ്റ് നോൺ ടച്ചിംഗ് ലൂപ്പുകൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ സ്പർശിക്കാത്ത ലൂപ്പുകളൊന്നുമില്ലെന്ന് മനസ്സിലാവും അതിനർത്ഥം ഈ പ്രത്യേക സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിങ്ങൾക്ക് മൂന്നിൽ കൂടുതൽ നോൺ ടച്ചിംഗ് ലൂപ്പുകളൊന്നുമില്ല അതിനാൽ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ മൂന്നോ നാലോ നോൺ ടച്ചിംഗ് ലൂപ്പുകളുടെ സെറ്റ് ലഭ്യമല്ല അതിനാൽ അവസാനമായി നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ഡെൽറ്റ അതായത് 1 മൈനസ് ഇൻഡിവിജ്വൽ ലൂപ്പ് നേട്ടങ്ങളുടെ സംഗ്രഹമാണ് അതിനാൽചർച്ച ചെയ്തതുപോലെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഡിവിജ്വൽ ലൂപ്പ് ഗേയിൻ അതിനാൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക ഈ പ്രത്യേക ഇൻഡിവിജ്വൽ ലൂപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതു മൈനസ് Z2 Y1 മൈനസ് Z2 Y3 മൈനസ് Z4 Y3 എന്ന് എഴുതാം തുടർന്ന് നിങ്ങൾക്ക് രണ്ട് സെറ്റ് നോൺ ടച്ചിംഗ് ലൂപ്പുകൾ ഉണ്ടാകും അതിനാൽ ഇത് Z3 Y1 ഗുണനം Y3 Z4 ആയി മാറും അതിനാൽ ഡെൽറ്റയുടെ ഭാഗമായി ഇത് നിങ്ങൾക്ക് ലഭിക്കും അടുത്തത് മുന്നോട്ടുള്ള പാതയിൽ തൊടാത്ത എത്ര ലൂപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്നതാണ് അതിനാൽ ഈ ഫോർവേഡ് പാത്ത് നോക്കുകയാണെങ്കിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ കാണാൻ കഴിയുന്ന മൂന്ന് ലൂപ്പുകളും ഫോർവേഡ് പാതയിൽ സ്പർശിക്കുന്നു അതിനാൽ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക നിങ്ങൾക്ക് ഡെൽറ്റ 1 എഴുതാൻ കഴിയും കാരണം ഞങ്ങൾക്ക് ഒരു ഫോർവേഡ് പാത്ത് മാത്രമേ 1 ന് തുല്യം ആയി ഉള്ളൂ അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾ ഇപ്പോൾ സമ്പൂർണ്ണ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനായ മൂല്യം കണ്ടുപിടിക്കുന്നു അതായത് CsRs നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക ഇപ്പോൾ നിങ്ങൾക്ക് Tk ഗുണനം ഡെൽറ്റ k എന്ന് എഴുതാൻ കഴിയും അതിനാൽ ഫോർവേഡ് പാത്ത് ഗേയിൻ Y3 Z4 ഗുണനം Y1 Z2 എന്നാണ് നിങ്ങൾക്ക് ഉള്ളത് ഡെൽറ്റ കെ 1 ആണ് എന്തായാലും നിങ്ങൾക്ക് 1 ന് തുല്യമായ ഗുണനം എഴുതാം അല്ലെങ്കിൽ അത് അതേപടി തുടരും ഡിനോമിനേറ്ററിൽ നിങ്ങൾ ഡെൽറ്റയുടെ മൂല്യം എഴുതുന്നു അപ്പോൾ ഡെൽറ്റയുടെ മൂല്യം എന്താണ് ഡെൽറ്റ എന്നാൽ 1 അധികം Z2 Y1 അധികം Z2 Y3 അധികം Z4 Y3അധികം Z2 Z4 Y1 Y3 ആയിരിക്കും അതിനാൽ നിങ്ങൾ മേസൺ റൂൾ പ്രയോഗിക്കുമ്പോൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിന്ന് ലഭിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനാണിത് അതിനാൽ മറ്റ് സിഗ്നൽ ഫ്ലോ ഗ്രാഫുകൾക്കായുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു Refer Slide Time 1028 ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തെക്കുറിച്ച് സംസാരിക്കാം അതിനെ ഒരു സ്റ്റേറ്റ്സമവാക്യം എന്നും വിളിക്കുന്നു എന്തുകൊണ്ട് നമുക്ക് ആ ആശയം മനസ്സിലാക്കാം അതിനാൽ ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം n ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളായി വിഘടിപ്പിക്കാം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഉയർന്ന ഓർഡറുകളേക്കാൾ പരിഹരിക്കാൻ ലളിതമാണ് നിയന്ത്രണ സിസ്റ്റത്തിന്റെ വിശകലന പഠനങ്ങളിൽ ആദ്യ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ കണ്ടേക്കാവുന്ന വളരെ സാധാരണമായ സമവാക്യമാണിതെന്ന് ഒരു സാമ്പിൾ ഡിഫറൻഷ്യൽ സമവാക്യം എടുക്കാം സീരീസ് ആർഎൽസി സർക്യൂട്ടിനെക്കുറിച്ചും ബാഹ്യ വോൾട്ടേജ് ഉറവിടം ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ സംസാരിച്ച ഉദാഹരണമാണിത് അതിനാൽ നമുക്ക് എന്ന് എഴുതാം R ആണ് പ്രതിരോധം L എന്നത് ഇൻഡക്റ്റൻസ് C കപ്പാസിറ്റൻസ് i നെറ്റ്വർക്കിലെ കറന്റ് പ്രയോഗിച്ച വോൾട്ടേജ് അതിനാൽ ഈ സാഹചര്യത്തിൽ നിർബന്ധിത പ്രവർത്തനമാണ് എന്താണ് t t ആണ് സ്വതന്ത്ര വേരിയബിൾ ഈ ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കുന്നതിലൂടെ നിർണ്ണയിക്കേണ്ട ഒരു ആശ്രിത വേരിയബിൾ അല്ലെങ്കിൽ അജ്ഞാതമായി നിലവിലുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് അനുമാനിക്കാം ഒപ്പം മുമ്പത്തെ സമവാക്യം അതായത് നെ ഇനിപ്പറയുന്ന രണ്ട് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളായി വിഘടിപ്പിക്കുന്നു അതിനാൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ആശയം നിങ്ങൾക്ക് പൊതുവായി എഴുതാം നിങ്ങൾക്ക് ഇത് nth ഓർഡർ സിസ്റ്റത്തിനായി വിപുലീകരിക്കാൻ കഴിയും അതിനാൽ എന്താണ് നമുക്ക് എഴുതാൻ കഴിയുക എന്ന് നോക്കാം

അതിനാൽ നമ്മൾഎന്തു ചെയ്യും A0 a1 an 1 എന്നിവ y ന്റെ ഫങ്ക്ഷനുകൾ അല്ല എന്ന് അനുമാനിക്കും അതായത് അവ സ്ഥിരാങ്കത്തിന്റെ ഘടകം ആണ് അതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും നമുക്ക് ഇതിനെ മാറ്റാം

അതിനാൽ നിങ്ങൾ ഓരോ ഘടകത്തെ ഒരു വേരിയബിളായി പ്രതിനിധീകരിക്കുമ്പോൾ ഈ സമവാക്യത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് എഴുതാം

ഈ പ്രത്യേക സമവാക്യത്തിലേക്ക് നമ്മൾ അവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് അതിനെ ലളിതമാക്കുമ്പോൾ മറ്റ് ഘടകങ്ങളുടെ സംഗ്രഹമായി എഴുതാം അതിനാൽ അവസാന സമവാക്യം ലഭിക്കുന്നത് ഏറ്റവും ഉയർന്ന ഓർഡർ ഡെറിവേറ്റീവ് ബാക്കി പദവുമായി തുലനംചെയ്യുമ്പോൾ ആണ് അതിനാൽ നമുക്ക് ലഭിക്കുന്ന ആദ്യ ഓർഡർ സമവാക്യത്തിന്റെ സെറ്റ് നിങ്ങൾ നിർവചിച്ച വേരിയബിളുകളായ x1 x2 മുതൽ xn വരെ ഉള്ളവയെ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് അവയെ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത് കാരണം ആദ്യം എന്താണ് സ്റ്റേറ്റ് ഒരു സിസ്റ്റത്തിന്റെ അവസ്ഥ എന്നത് സിസ്റ്റത്തിന്റെ ഭൂതകാലത്തെയും വർത്തമാനത്തെയും ഭാവിയിലെയും അവസ്ഥകളെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഡൈനാമിക് സിസ്റ്റത്തെ മാതൃകയാക്കാൻ ഒരു കൂട്ടം സ്റ്റേറ്റ് വേരിയബിളും സെറ്റ് സമവാക്യങ്ങളും നിർവചിക്കുന്നത് സൌകര്യപ്രദമാണ് x1 x2 xn എന്നിവ പോലെ നിങ്ങൾ നിർവചിച്ച വേരിയബിൾ ഇവിടെ അടിസ്ഥാനപരമായി വേരിയബിൾ ആയിരിക്കും മുമ്പത്തെ സമവാക്യം നിർവചിക്കുന്നത് nth ഓർഡർ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് വേരിയബിളുകളാണ് ആദ്യത്തെ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ സ്റ്റേറ്റ് സമവാക്യമാണ് ഇപ്പോൾ സ്റ്റേറ്റ് വേരിയബിളിന്റെ നിർവചനം എന്താണ് അതിനാൽ സ്റ്റേറ്റ് വേരിയബിൾ ഇനിപ്പറയുന്ന വ്യവസ്ഥകൾ പാലിക്കണം അതിനാൽ t t0 എന്ന ഏത് പ്രാരംഭ സമയത്തും സ്റ്റേറ്റ് വേരിയബിളുകളായ x1 x2 xn സിസ്റ്റത്തിന്റെ പ്രാരംഭ അവസ്ഥകളെ നിർവചിക്കുന്നു ഒരിക്കൽ സിസ്റ്റത്തിന്റെ ഇൻപുട്ട് 0 നേക്കാൾ വലുതും ഇപ്പോൾ നിർവചിച്ച പ്രാരംഭ അവസ്ഥകളും വ്യക്തമാക്കിയാൽ സ്റ്റേറ്റ് വേരിയബിളുകൾ സിസ്റ്റത്തിന്റെ ഭാവി സ്വഭാവത്തെ പൂർണ്ണമായും നിർവചിക്കും അതിനാൽ നിങ്ങൾ കണ്ട x2 x3 മുതലായ വേരിയബിൾ എങ്ങനെയെങ്കിലും മുമ്പത്തെ വേരിയബിളിന്റെ ഡെറിവേറ്റീവ് നിർവചിക്കുന്നു അതിനാൽ ഇത് ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ നിലവിലുള്ള അല്ലെങ്കിൽ ഭാവിയിലെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമാക്കാം അതിനാലാണ് ഇവയെ സ്റ്റേറ്റ് വേരിയബിളുകൾ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് വേരിയബിളിനെ x1 മുതൽ xn വരെയുള്ള ചുരുങ്ങിയ വേരിയബിളായി നിർവചിച്ചിരിക്കുന്നു ഈ വേരിയബിളിനെക്കുറിച്ചുള്ള അറിവ് എപ്പോൾ വേണമെങ്കിലും അതായത് t0 എന്ന സമയവും ആ സമയത്ത് t0 പ്രയോഗിച്ച ഇൻപുട്ടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉം മതി ഏത് സമയത്തെ സിസ്റ്റത്തിന്റെ അവസ്ഥമനസ്സിലാക്കാൻ tt0 അതിനാൽ ഈ സ്റ്റേറ്റ് വേരിയബിളുമായി ബന്ധപ്പെട്ട അറിവ് നിങ്ങൾക്ക് t പൂജ്യത്തിന് തുല്യമാണെങ്കിൽ ഈ സ്റ്റേറ്റ് വേരിയബിളുകളുടെ സഹായത്തോടെ നിങ്ങൾക്ക് 0 നെക്കാൾ വലുതായ ഏത് സമയത്തും സിസ്റ്റം സ്റ്റേറ്റ് വ്യക്തമാക്കാൻ കഴിയും അതിനാൽ സ്റ്റേറ്റ് സ്പേസ് രീതിയിൽ സ്റ്റേറ്റ് വേരിയബിൾ നെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം ഈ സ്ലൈഡിൽ നിങ്ങൾ കണ്ട എല്ലാ സമവാക്യങ്ങളും എഴുതുമ്പോൾ നിങ്ങൾക്ക് അവയെ മാട്രിക്സ് രൂപത്തിൽ xt Axt Bu ആയി പ്രതിനിധീകരിക്കാൻ കഴിയും ഇവിടെ ആണ് സ്റ്റേറ്റ് വെക്റ്റർ

ഇൻപുട്ട് വെക്റ്ററാണ് അതായത്n ഇൻപുട്ട് വേരിയബിളുകൾ ഉണ്ടെങ്കിൽ ഇൻപുട്ട് വെക്റ്റർ എന്നാൽ ഇപ്പോൾ എന്താണ് ഗുണകം അതിനാൽ കോഫിഷ്യന്റ് മാട്രിക്സ് എയും ബി എന്നിവ നിങ്ങൾക്ക് നിർവചിക്കാം ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് സമവാക്യത്തെക്കുറിച്ച് സംസാരിക്കാം സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് അളക്കാൻ കഴിയുന്ന ഒരു വേരിയബിളാണ് പക്ഷേ ഒരു സ്റ്റേറ്റ് വേരിയബിൾ എല്ലായ്പ്പോഴും ഈ ആവശ്യകത നിറവേറ്റുന്നില്ല അതിന്റെ അർത്ഥമെന്താണെന്ന് നമുക്ക് മനസിലാക്കാം ഇലക്ട്രിക് മോട്ടോറിന്റെ കാര്യത്തിൽ ഉദാഹരണത്തിന് പറയുക സ്റ്റേറ്റ് വേരിയബിളുകൾ വിൻഡിംഗ് കറന്റ് അല്ലെങ്കിൽ റോട്ടർ വേഗത സ്ഥാനചലനം എന്നിവ പോലെയാകാം അതിനാൽ ഇവ അളക്കാവുന്ന അളവാണ് അതിനാൽ ഈ വേരിയബിളുകളെ ഔട്ട്പുട്ട് വേരിയബിളായി കണക്കാക്കാം അതേസമയം ഈ ഇലക്ട്രിക് മോട്ടോറിന്റെ കാര്യത്തിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സ്റ്റേറ്റ് വേരിയബിളായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു ഔട്ട്പുട്ട് വേരിയബിളായി എടുക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രവർത്തനം ഉപയോഗിച്ച് നേരിട്ട് കാന്തിക പ്രവാഹം അളക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു ഔട്ട്പുട്ട് വേരിയബിളാകാൻ യോഗ്യതയില്ലാത്തത് ഇപ്പോൾ പൊതുവേ നിങ്ങൾ ഔട്ട്പുട്ട് വേരിയബിളിനെ ഈ സ്റ്റേറ്റ് വേരിയബിളിന്റെ ബീജഗണിത സംയോജനമായി എഴുതുന്നു അതിനാൽ നമ്മൾ ഇപ്പോൾ വിവരിച്ച ഈ സിസ്റ്റം ഔട്ട്പുട്ടായി നിയുക്തമാക്കിയിട്ടുണ്ടെങ്കിൽഔട്ട്പുട്ട് സമവാക്യംആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ എഴുതാം അതിനാൽ നമ്മൾ ഇതുവരെ എന്താണ് ചെയ്തത് തുടർച്ചയായ ലീനിയർ ഡാറ്റയ്ക്കും വ്യതിരിക്തമായ ഡൈനാമിക് സിസ്റ്റങ്ങൾക്കുമായി സ്റ്റേറ്റ് വേരിയബിളുകളുടെയും സ്റ്റേറ്റ് സമവാക്യങ്ങളുടെയും ആശയവും നിർവചനവും അവതരിപ്പിച്ചു ലീനിയർ സിസ്റ്റങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലഭിക്കുന്നതിന് ബ്ലോക്ക് ഡയഗ്രം സിഗ്നൽ ഫ്ലോ ഗ്രാഫ് രീതികൾ എന്നിവ ഉപയോഗിച്ചു ഇപ്പോൾ അടുത്ത ഭാഗത്ത് എന്തുചെയ്യും സ്റ്റേറ്റ് സമവാക്യത്തിന്റെ മോഡലിംഗിലും സ്റ്റേറ്റ് ഡയഗ്രാമുകളിൽ ഉപയോഗിക്കുന്ന ഉത്തരങ്ങളും വിപുലീകരിക്കാൻ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആശയം ഉപയോഗിക്കും സ്റ്റേറ്റ് വേരിയബിൾ ഫോർമുലേഷന്റെ അടിസ്ഥാന സവിശേഷതകൾ ലീനിയർ നോൺലീനിയർ സിസ്റ്റങ്ങൾ ടൈം ഇൻവേരിയൻറെ ടൈം വേരിയൻറെ സിസ്റ്റം എന്നിവയാണ് സിംഗിൾ വേരിയബിൾ മൾട്ടിവയറബിൾ സിസ്റ്റങ്ങളെ ഏകീകൃതമായി മാതൃകയാക്കാൻ കഴിയും മറുവശത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിർവചിച്ചിരിക്കുന്നത് ലീനിയർ ടൈം ഇൻവേരിയൻറെ സിസ്റ്റത്തിന് മാത്രമാണ് അതിനാൽ ഇതുപയോഗിച്ച് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാൻ കഴിയും നമ്മൾ മൾട്ടി ഇൻപുട്ട് ഒന്നിലധികം ഔട്ട്പുട്ട് കാണുന്ന മൾട്ടി വേരിയബിൾ സിസ്റ്റം മോഡലിംഗ് ആരംഭിക്കുമ്പോൾ ചർച്ച തുടരും കൂടാതെ ആ മോഡലുകളുടെ സെറ്റ് നിങ്ങൾ വിശകലനം ചെയ്യും നന്ദി